നമസ്കാരം നമുക്ക് ക്ലൌഡ് കമ്പ്യൂട്ടിഗിന്റെ ചർച്ച തുടരാം ഇന്ന് നമ്മൾ കമേഴ്സ്യൽ ചെയ്യാൻ പറ്റും പകർപ്പ് ഉണ്ടാക്കുന്നത് എളുപ്പമാണ് ഇതിൽ ഇതിലേക്ക് താല്പര്യമുള്ളവർ നിങ്ങളുടെ ഒരു ലോഗിൻ ഉണ്ടാക്കുക എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ നോക്കുക യഥാർത്ഥത്തിൽ ഒരു കമേഴ്സ്യൽ ക്ലൌഡ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇതാണ് അതിൻറെ പ്രധാന പ്രേരണ ഏത് തരത്തിലുള്ള കമേഴ്സ്യൽ ആയിട്ടുള്ള ഓപ്പൺസോഴ്സ് അതിനുണ്ട് മൈയ്ക്രോ സോഫ്റ്റ് അസ്യൂറിന്റെ മുഴുവനായിട്ടുള്ള ഒരു അവലോകനം എടുക്കുകയാണെങ്കിൽ അത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ഇന്റഗ്രേറ്റ്ട്ട് ക്ലൌഡ് സർവീസുകളാണ് വഴി ഉപയോഗിക്കുന്നു മൈയ്ക്രോസോഫ്റ്റ് ആണ് ഇങ്ങനെത്തെ അവസ്ഥയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അസ്യൂറിന്റെ ഡെവലപ്പർമാർക്ക് ഇതിനെ ഉണ്ടാക്കാനും ഉപയോഗിക്കുവാനും ഉള്ള സ്വാതന്ത്ര്യം ഉണ്ട് എവിടെ വേണമെങ്കിലും അവരുടെ തീരുമാനമനുസരിച്ച് ഇതിനെ ഉപയോഗിക്കാവുന്നതാണ് അതിനർത്ഥം ഇതിനെ എല്ലായിടത്തും ഉപയോഗിക്കാം എന്നാണ് പ്രധാനമായിട്ടും ഇത് പാസ് വെച്ചു കൊണ്ടോ അല്ലാതെയോ അവരവരുടെ സ്ഥലത്ത് ഉണ്ടാക്കാവുന്നതാണ് മൈക്രോസോഫ്റ്റ് അസ്യുർ ആ സമയത്ത് നിങ്ങൾക്ക് ക്ലൌഡിൽ നിന്നും ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മൈക്രോസോഫ്റ്റ് എന്നത് ലോകം മുഴുവൻ കാണപ്പെടുന്ന ഒരു ഡേറ്റ സെൻറർ ആണ് ഈ ചിത്രത്തിൽ മിക്ക കാര്യങ്ങളും ഉണ്ട് അതിനെ നമ്മൾ മൈക്രോസോഫ്റ്റ് അസ്യുർ വെബ്സൈറ്റിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് ഈ ചിത്രം ചിലപ്പോൾ പഴയത് ആയിരിക്കാം പല തരത്തിലുള്ള ഡേറ്റ സെന്ററുകൾ വന്നിട്ടും ഉണ്ടാകാം ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്നു വച്ചാൽ ലോകം മുഴുവൻ ഡേറ്റ സെൻസറുകൾ ഉണ്ട് അവയെ തമ്മിൽ ബന്ധപ്പെടുത്തിയിരിക്കുകയാണ് ഉപദോക്താവിന് അസ്യുറിന് ഒരു ക്ലൌഡ് ആയിട്ട് ഇതിലേക്ക് കയറാവുന്നതാണ് ഇതിന്റെ യഥാർത്ഥ ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ പ്ളാറ്റ്ഫോമിനേയോ കുറിച്ച് മനസ്സിലാക്കാതെ തന്നെ നമുക്ക് ഇത് ചെയ്യാവുന്നതാണ് നമ്മൾ ദാ അസ്യുർ പ്ലാറ്റ്ഫോമിൽ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു കൂട്ടം ക്ലൌഡ് ടെക്നോളജികൾ ബന്ധപ്പെടാം ഇനി പ്രധാനപ്പെട്ട കംപൊണന്റ്റുകളെ വച്ച് ബന്ധിപ്പിക്കുവാൻ സഹായിക്കുന്നു യഥാർത്ഥത്തിൽ ഇത് ഒരു ഡെവലപ്മെന്റ് പളാറ്റ്ഫോമാണ് പാസ്സ് എന്നത് ഒരു ഡെവലപ്പ്ഡ് പളാറ്റ്ഫോമാണ് ഇനി മൈക്രോസോഫ്റ്റ് അസ്യുർ നോക്കാം ഇവിടെ ഉപഭോക്താക്കൾ ഇതിനെ ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കാനും ഡേറ്റ സൂക്ഷിക്കാനും ഇൻറർനെറ്റ് എടുക്കാൻ പറ്റുന്ന മെഷീനുകളിലൂടെ ഉപയോഗിക്കുന്നു ഇതിനെ കൈകാര്യം ചെയ്യുന്നത് മൈക്രോസോഫ്റ്റ് ആണ് ഇത് സർവീസുകൾ ബിസിനസിനും ഉണ്ട് അത് കാര്യങ്ങൾ നടത്താൻ സഹായിക്കുന്നു അപ്പോൾ അസ്യുർ എന്നത് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതിന്റെയും ഡേറ്റയെ ക്ലൌഡിൽ സൂക്ഷിക്കുന്നതിന്റെയും ഒരു അടിസ്ഥാനമാണ് അതുപോലെ അത് കംപ്യൂട്ടുംസ്റ്റോറേജും ഫാബ്രിക്കും തരുന്നുണ്ട് ഫാബ്രിക്ക് എന്നത് പ്രധാനമായും സാധനങ്ങളെ ബെയർ മെറ്റലുമായി ബന്ധിപ്പിക്കാൻ വേണ്ടി ഉള്ളതാണ് അത് പല തരത്തിലുള്ള ഡേറ്റ സെന്റർ ആണ് ഇത് സാധനങ്ങളുടെ മുകളിൽ ഒരു ലെയർ കൊടുക്കുന്നു അത് വെർച്വലൈസേഷന് സഹായിക്കുന്നു ദാ ഓരോ കംപൊണെൻറ്റുകളിലൂടെ നമുക്ക് നോക്കാം ആദ്യം കംപ്യൂട്ട് കംപോണന്റ് അത് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതിനായി വേണ്ടി വരും പിന്നെ അത് ഒരുപാട് ഉപഭോക്താക്കൾ ഒരേ സമയത്ത് ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുമ്പോൾ അതിനെ പിന്താങ്ങുന്നു അങ്ങനെ ഇതിനെ സ്കെയിൽ ഔട്ട്ഉം ചെയ്യുവാൻ സാധിക്കും അടുത്തത് സ്റ്റോറേജ് അത് ഡേറ്റ സൂക്ഷിക്കുന്നതിനും എടുക്കുന്നതിനുമായി ഉപയോഗിക്കുന്നു ആപ്ലിക്കേഷനുകൾക്ക് സ്റ്റോറേജ് വളരെ ആവശ്യമാണ് വിവരങ്ങളെ നല്ല രൂപഘടനയോടെ സൂക്ഷിക്കേണ്ടി വരും അതുപോലെ ഒരു ആപ്ലിക്കേഷന്റെ പലഭാഗത്തേക്കും ഡേറ്റയെ കൈമാറ്റം ചെയ്യേണ്ടിവരും അടുത്തത് ഫാബ്രിക് അത് റിസോഴ്സുകളെ കൈകാര്യം ചെയ്യുന്നു അതുപോലെ അത് ക്ലൌഡ് പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുകളെ കൈകാര്യം ചെയ്യാനും നോക്കുവാനും വേണ്ടിയുള്ള ഒരു പൊതുവഴി കൊടുക്കുന്നു അപ്പോൾ ഇതൊരു മോണിറ്ററിങ് ടൂൾ ആണ് അത് അതിനടിയിലുള്ള റിസോഴ്സുകളെ കൈകാര്യം ചെയ്യുന്നു അല്ലെങ്കിൽ ബെയർ മെറ്റൽ റിസോഴ്സ് ആണ് അതിൻറെ നട്ടെല്ല് ഇതാണ് മൊത്തത്തിലുള്ള ഒരു രേഖാചിത്രം നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ബെയർ മെറ്റൽ ഉണ്ട് ഈ അസ്യുർ ഫാബ്രിക് അടിസ്ഥാനപരമായി ഈ റിസോഴ്സുകളുമായി സമ്പർക്കം പുലർത്തുകയും അവയെ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു അതുപോലെ നമ്മുടെ കയ്യിൽ പലതരത്തിലുള്ള കമ്പ്യൂട്ട് സ്റ്റോറേജുകളും ഉണ്ട് അതിന്റെ കൂടെ പലതരത്തിലുള്ള വെബ് റോൾ വർക്കർ റോൾ ഉണ്ട് ടേബിൾ ബ്ലോബ് എന്നിവ ഉണ്ട് ഉപഭോക്താവ് അല്ലെങ്കിൽ ബിസിനസ് എന്നിവയെ നമ്മൾ ഇൻറർനെറ്റിലൂടെ കാര്യങ്ങളിലേക്ക് ബന്ധിപ്പിക്കുന്നു ഇവിടെ ലോഡ് ബാലൻസറുകൾ ബന്ധിപ്പിക്കുന്നു കഴിഞ്ഞ സ്ലൈഡിൽ കണ്ട ഇൻസ്റ്റൻസ് ടൈപ്പ് ആണ് ഉപഭോക്താക്കൾക്ക് ഇൻറർനെറ്റിലൂടെ അത് എടുക്കാവുന്നതാണ് അത് വെബ് ആപ്ലിക്കേഷൻ സർവീസുമാണ് ഇനി അടുത്തത് വർക്കർ റോൾ ഒരു പ്രത്യേക പ്രോസസ്സിന് വേണ്ടി ഉണ്ടാകുന്ന പരിസ്ഥിതി ആണത് അതിനെ വിതരണം ചെയ്യാനും സങ്കീർണമായ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനുമുള്ള കഴിവുണ്ട് ഇതാണ് അപ്പോൾ വർക്കർ റോൾ ഉപഭോക്താവ് വെബ് റോളിലോട്ട് അപേക്ഷ കൊടുക്കും അത് വർക്കർ റോളിലോട്ട് ചോദ്യം കൊടുക്കും വർക്കർ റോളിൽ നിന്ന് റിസൾട്ട് വരും വെബ് റോളിൽ നിന്ന് പ്രതികരണം വരും ഇത് കൂടുതലായും സങ്കീർണ്ണമായ ജോലിയുടെയും ഉപദോക്താവിന്റേയും ഇടയിൽ ഉള്ള ഒരു ഇൻറ്റർഫെയ്സ് ആയിട്ട് പ്രവർത്തിക്കുന്നു ഇൻസ്റ്റൻസ് ടൈപ്പിൽ ഏതു സർവീസ് ആയിരുന്നാലും അത് ഒരു റോൾ എങ്കിലും ഈ രണ്ടെണ്ണത്തിൽ നിന്നും എടുക്കണം അതിൽ എത്ര വെബ് റോളുകളോ വർക്ക് റോളുകളോ ആകാം വർക്ക് റോളിന് വെബ് റോളുകളുമായി സംമ്പർക്കം പുലർത്താൻ വിൻഡോസ് അസ്യുർ സ്റ്റോറേജ് ക്യൂസ് വച്ച് സാധിക്കും നമ്മൾ ഈ ചിത്രത്തിൽ അത് കണ്ടതാണ് ഈ ഒരു കൂട്ടം ക്യൂകൾ ഇവിടെ ഉണ്ട് ഇത് സ്റ്റോറേജ് ഭാഗമാണ് ഓരോ വി എം നും ഏജന്റ് ഉണ്ട് അത് ആപ്ലിക്കേഷനെ വിൻഡോസ് അസ്യുർ ഫാബ്രിക്കമായി സംമ്പർക്കം പുലർത്താൻ സഹായിക്കുന്നു അത് അതിന്റെ അടിയിലുള്ള റിസ്സോഴ്സുകളുമായി സംമ്പർക്കും പുലർത്തുന്നു ഇതിന് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ടൂളുകൾ വച്ച് എവിടെ വേണമെങ്കിലും വിന്യസിക്കുവാനുള്ള കഴിവ് കൊടുക്കുന്നു അതുകൊണ്ട് ഇത് ഫെളക്സിബിൾ ആണ് അതുപോലെ ഇത് ക്ലൌഡിനേയും ഓൺ പ്രിമിസിനേയും ചെയ്യേണ്ടിവരും മൈക്രോസോഫ്റ്റ് അപ്പോൾ ഒരുപാട് സർവീസുകൾ തരുന്നുണ്ട് അത് കാരണം ഇത് വൈദഗ്ദ്ധ്യമുള്ള ഒന്നാണ് അത് ഓൺ പ്രെമിസസിനേയും ഡേറ്റയെയും ആപ്ലിക്കേഷനെയും ബന്ധിപ്പിക്കുന്നു എന്നിട്ട് ക്ലൌഡ് കംപോണന്റുമായി എക്സ്റ്റഡ് ചെയ്യുന്നു ഇതിന് പല ആപ്ലിക്കേഷൻ ആവശ്യമുണ്ട് അത് പ്രൊപ്രിയേറ്ററി സെക്യൂരിറ്റി അല്ലെങ്കിൽ ഹൈ ലെവൽ പ്രൊപ്രിയേറ്ററി കാര്യങ്ങൾ ആകാം അത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ക്ലൌഡിൽ ഉപയോഗിക്കാവുന്നതാണ് അത് ചില സുരക്ഷക്കുളള മെക്കാനിസവും തരുന്നു അങ്ങനെ നമുക്ക് കാര്യങ്ങളെ സൂക്ഷിച്ചുവയ്ക്കാൻ സാധിക്കുന്നു ഇത് സുരക്ഷ സ്വകാര്യത ആജ്ഞാനുവർത്തിത്വം സുതാര്യത എന്നിവയ്ക്ക് കൂടുതൽ പ്രാവീണ്യം കൊടുക്കുന്നു അങ്ങനെ ഇതിന് ലോക്കൽ റീജനിൽ കൈവരിക്കാൻ സാധിക്കുകയും ഭീഷണികളെ കണ്ടു പിടിച്ച് മാറ്റുവാൻ സാധിക്കുകയും ചെയ്യുന്നു അതിന്റെ കൂടെ ഏറ്റവും വിശ്വാസമേറിയ ക്ലൌഡിനെ ആശ്രയിക്കുവാനും സാധിക്കുന്നു അതിൻറെ അർത്ഥം ഇത് വ്യത്യസ്തങ്ങളായ സുരക്ഷാമാനദണ്ഡങ്ങളാണ് തരുന്നത് എന്നാണ് അതായത് സ്വകാര്യത ആജ്ഞാനുവർത്തിത്വം സുതാര്യത തുടങ്ങിയവ ഇത് ഉപഭോക്താക്കൾക്ക് ഒരു വിശ്വാസം തരുന്നു ഇതാണ് എല്ലാ ക്ലൌഡ് പ്രൊവൈഡറിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ക്ലൌഡ് പ്രൊവൈഡർ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അതിന്റെ കഴിവ് അനുസരിച്ചും ഏതുതരത്തിലുള്ള സർവീസാണ് അത് തരുന്നത് എന്നതനുസരിച്ചും അതുപോലെ എത്രമാത്രം സുരക്ഷയാണ് എന്റെ ഡേറ്റക്കും ആപ്ലിക്കേഷനും തരുന്നത് എന്നതനുസരിച്ചുമാകും അടുത്തത് ആക്സിലറേറ്റ് ആപ്പ് ഉപയോഗിക്കുന്നു അതു കാരണം ഡെവലപ്പർമാർക്ക് വളരെ വേഗത്തിൽ ഉണ്ടാക്കുകയും ഉപയോഗിക്കുകയും കൈകാര്യം ചെയ്യുവാനും ഈ അപ്പുകൾ കൊണ്ട് സാധിക്കും ഇതിനെക്കുറിച്ച് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതും ഇതൊക്കെ കാരണം ആണ് നമ്മൾ ക്ലൌഡ് ഉപയോഗിക്കുന്നത് നമുക്ക് പെട്ടെന്ന് ആപ്പുകളെ ഉണ്ടാക്കുകയും ഉപയോഗിക്കുകയും കൈകാര്യം ചെയ്യുകയും വേണം ഇനി അസ്യുർ പ്രധാനമായും പ്ലാറ്റ്ഫോം ഒരു സർവീസ് ആയിട്ടാണ് വരുന്നത് ഇവിടെ അപ്പോൾ കാര്യങ്ങൾക്ക് വികസനം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സോഫ്റ്റ്വെയർ ഒരു സർവീസ് ആയിട്ടുള്ളതിനേക്കാളും കൂടുതൽ ആണ് അപ്പോൾ കാര്യങ്ങളുടെ ആവശ്യവും ഉപയോഗവും കൂടുന്നു ഇത് IAS തരത്തിലുള്ള സർവീസ് ആണെങ്കിൽ വർച്വൽ അതായത് വെർച്ച്വൽ മെഷീനുകളുടെ ലഭ്യത ആണ് പക്ഷേ അത് ആപ്പുകളെ എളുപ്പത്തിലും വേഗത്തിലും ഉണ്ടാക്കുകയും ചെയ്യുന്നു അപ്പോൾ ആപ്പുകളുടെ മാനേജ്മെൻറ് കൈകാര്യം ചെയ്യാൻ പുറമേനിന്നുള്ള പ്രേരണയില്ലാതെ ചെയ്യാൻ സാധിക്കുന്നു അങ്ങനെ മൊബൈൽ ആപ്പുകളും കൈകാര്യം ചെയ്യാൻ പറ്റുന്നു അങ്ങനെ ഈ ആപ്പുകളെ പെട്ടെന്ന് ഉണ്ടാക്കുകയും കൈകാര്യം ചെയ്യുകയും വിതരണം ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നു അടുത്തത് അനാലിറ്റിക്സും ഡേറ്റ സർവീസും അത് ബിസിനസ്സിലെ കാഴ്ചപ്പാടുകളെ തുറന്നു കാണിക്കുന്നു അതിൻറെ കൂടെ പുരോഗമിച്ച അനാലിറ്റിക്സും ഡേറ്റ സർവീസും ട്രഡീഷണലിനും പുതിയ ഡേറ്റസോഴ്സിനും കൊടുക്കുന്നു എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുന്നു ഇതിന്റെ സ്വഭാവത്തെ മുൻകൂട്ടി കാണുന്നു അതിനനുസരിച്ച് ബിസിനസ്സിൽ വരേണ്ട നടപടികളെക്കുറിച്ച് പറയുന്നു അതായത് ഇത് ഒരുപാട് തരത്തിലുള്ള മെറ്റാ ആപ്ലിക്കേഷൻസ് തരുന്നു ലൈബ്രറി മാത്രമായിട്ട് നമ്മൾക്ക് ഡേറ്റ അനാലിറ്റിക്സും ഡേറ്റാ സർവീസും തരുകയല്ല ചെയ്യുന്നത് ഇത് നമ്മൾക്ക് ഇൻഡിജറുകൾ നമ്മുടെ ആപ്പിലേക്ക് കേറ്റാൻ സഹായിക്കുന്നു പുറമേനിന്നുള്ള ഒരു പ്രേരണയില്ലാതെ പ്രതികരിക്കാറുണ്ട് ചില സമയങ്ങളിൽ ഏതെങ്കിലും ഒരു ഡേറ്റയോടുള്ള സ്ട്രാറ്റജിയിൽ അതു പിന്താങ്ങുന്നു ഇത്രയും കാര്യങ്ങളാണ് അസ്യുർ നമുക്ക് തരുന്നത് അതിൻറെ അർത്ഥം അതിൻറെ കയ്യിൽ ഒരുപാട് ഡേറ്റ അനാലിറ്റിക്സും ഡേറ്റ സർവീസ് തരത്തിലുള്ള കംപോണന്റുകളും ഉണ്ട് എന്നുള്ളതാണ് അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് അസ്യുറിൽ ആണ് പൈത്തൻ വെബ് ആപ്പ് ഉണ്ടാക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു ഡെമോ ആണ് ഇത് വളരെ സങ്കീർണമായ ഒന്നല്ല ഇവിടെ ഈ ഒരു ആശയമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇവിടെ സൌജന്യമായിട്ടുള്ള ലൈസൻസ് അല്ലെങ്കിൽ സൌജന്യമായിട്ടുള്ള ലോഗിൻ ആണ് ചെയ്യുന്നത് നിങ്ങൾ കാശുകൊടുത്തു ലോഗിൻ ചെയ്യുന്നതിനു മുമ്പ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഐഡിയ ഉണ്ടായിരിക്കണം ഇതിൽ ഒരുപാട് റിസോഴ്സുകളുണ്ട് മിക്ക ആപ്ലിക്കേഷനുകളും ഡെവലപ്മെന്റ് റിസോഴ്സിന്റേതാണ് അപ്പോൾ ഇത് തുടങ്ങുന്നതിനു മുമ്പ് തന്നെ നിങ്ങൾക്ക് ഇതിനെ കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം ഇപ്പോൾ ഇതിന്റെ ഡെമോ ഞാൻ കാണിച്ചു തരാം പെട്ടെന്ന് ഇതിന്റെ ഓരോരോ നടപടിക്രമങ്ങളെ കുറിച്ചു കാണിക്കാം യഥാർത്ഥ നടപടികളിൽ നിന്ന് കുറച്ചു വ്യത്യാസങ്ങൾ ഞാൻ ഇവിടെ കാണിക്കുന്നതിൽ ഉണ്ടാകാം ഇപ്പോൾ നിങ്ങൾക്ക് ഈ പോർട്ടൽ ഡോട്ട് അസ്യൂർ ഡോട്ട് കോം തുറക്കാം ഇവിടെ നമ്മൾ ലോഗിൻ ചെയ്യുകയാണ് പാസ്സ്വേർഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് ലോഗിൻ സ്ക്രീൻ ലൌഞ്ച് ചെയ്യാം ലോഗിൻ ചെയ്തതിനു ശേഷം അടിസ്ഥാനപരമായി നമ്മൾ ഈ മാതൃക ആപ്പ് ഡൌൺലോഡ് ചെയ്യുകയാണ് അപ്പോൾ ഈ ടെർമിനൽ വിൻഡോയിൽ ചെയ്തു നമ്മളുടെ ലോക്കൽ മെഷീനിൽ വെക്കണം ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു പ്രത്യേക മാതൃക ആപ്പ് ഡൌൺലോഡ് ചെയ്യാം അത് തുടക്കക്കാർക്ക് എളുപ്പത്തിൽ ടാബുകൾ ചെയ്യാനും അവരുടെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ പറ്റുകയും ചെയ്യണം എന്നിട്ട് അതിനെ നമ്മൾ അസ്യൂർ പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്തിട്ട് ഉപയോഗിക്കണം ഇനി നമുക്ക് നേരെ ഡയറക്ടറിയിലോട്ട് പോകാം അവിടെ ഡൌൺലോഡ് ചെയ്തിരിക്കുന്ന മാതൃക ആപ്പുകൾ ഉണ്ട് ഇവിടെ നമ്മൾ ഡയറക്ടറിയിലോട്ട് പോയിട്ട് ഫ്ലാസ്ക് ചെയ്യുന്നു അതിനുശേഷം ഈ ആപ്പിനെ ലോക്കൽ ആയിട്ട് ഉപയോഗിച്ചു നോക്കുന്നു ഇനി ഈ ആപ്പ് നമുക്ക് തുറക്കാം അതിന് ലോക്കൽ പിന്നെ ഈ കാര്യങ്ങളെല്ലാം കൊടുക്കുക പിന്നെ 5000 ഡോട്ട് ഹലോ വേൾഡ് ചെയ്യണം അതിന് ഈ നിർദ്ദേശം ഉപയോഗിക്കാം ഇത് അസ്യൂറിൻറെ ഡാഷ്ബോർഡിൽ ഒരു റിസോഴ്സ് ഗ്രൂപ്പ് ഉണ്ടാക്കും അതിനുശേഷം അസ്യൂർ ആപ്പ് സർവീസ് പ്ലാൻ ഉണ്ടാകണം നമ്മുടെ സ്വന്തം ഒരു വെബ് ആപ്പ് ഉണ്ടാക്കണം എന്നിട്ട് ഈ URL നെ ബ്രൌസ് ചെയ്തു നോക്കി പുതിയതായി ഉണ്ടാക്കിയ ആപ്പിനെ നമ്മൾ തുറന്നു നോക്കുന്നു അപ്പോൾ അടിസ്ഥാനപരമായി നിങ്ങൾ സ്വന്തമായി നിങ്ങളുടെ ആപ്പ് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് നിങ്ങൾ പഠിക്കുകയാണ് എന്നിട്ട് നിങ്ങൾ അസ്യൂർ ഡാഷ്ബോർഡ് ഉപയോഗിച്ച് പൈത്തൺ ചെയ്യുക ഇനി ലോക്കൽ കിറ്റിനെ ചെയ്യാൻ സഹായിക്കും അസ്യൂർ ഫോമിൽ അമർത്തുക നമ്മൾക്ക് ബാക്കിയുള്ള കമാൻഡുകൾ കാണിച്ചുതരും റിമോട്ടിൽ ഉള്ള അസ്യൂറിൽ അമർത്തുക അത് നമ്മൾക്ക് പ്രത്യേക ആപ്പുകളെ ഉപയോഗിക്കാനുള്ളത് കാണിച്ചുതരുന്നു വീണ്ടും ഇവിടെ ബ്രൌസ് ചെയ്തു നോക്കുക എന്നിട്ട് ഉപയോഗിക്കുക ഇതിനെ അപ്ഡേറ്റും റിഡിപ്ലോയ്യും ചെയ്യുക ഇനി നിങ്ങൾ ലോക്കൽ ടെക്സ്റ്റ് എഡിറ്റർ തുറക്കണം അതിന് മെയിൻ പൈ എന്ന ഫയൽ തുറക്കണം അത് പൈത്തണിൽ ആണ് ഉള്ളത് അതിലൂടെ നിങ്ങൾക്ക് വ്യത്യാസങ്ങൾ വരുത്താൻ സാധിക്കും ഉദാഹരണത്തിന് വെൽക്കം ടു എൻപിടിഈഎൽ കോഴ്സ് ഓൺ ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് എന്നത് ഒരു ലളിതമായ ഫോർവേഡ് ടെക്സ്റ്റ് ആണ് നമ്മൾക്ക് ആവശ്യാനുസരണം സങ്കീർണമായ ആപ്ലിക്കേഷനുകളും ഇതിനകത്ത് ചെയ്യാവുന്നതാണ് ഇനി ജി ഐ ടി ആകും ഈ കമാൻഡുകളെ കുറിച്ച് ഇനിവരുന്ന ലൈവ് ഡെമോയിൽ കാണിക്കാം ഡിപ്ലോയിമെൻറ് ചെയ്യാം പേജ് റീപ്ലേസ് ചെയ്യുമ്പോൾ ഈ URL ക്ലൌഡ് കമ്പ്യൂട്ടിംഗിലെ NPTEL കോഴ്സിലേക്ക് വരും നമ്മൾ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്നു വെച്ചാൽ ഇതേ പോലത്തെ ഒരു എക്സർസൈസ് പക്ഷേ കുറച്ചുകൂടി കൂടുതൽ സ്ക്രീൻ ഉള്ളത് ഓരോ പടിപടിയായി ഒരു സാധാരണ ആപ്പ് മൈക്രോസോഫ്റ്റ് അസ്യുർ ഉപയോഗിച്ച് നമുക്ക് ചെയ്തു നോക്കാം ഇവിടുത്തെ പ്രധാന ആശയം എന്താണെന്നുവെച്ചാൽ നിങ്ങൾക്ക് ഒരു കൊമേഴ്സ്യൽ ക്ലൌഡ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു ഓപ്പൺസോഴ്സ് ക്ലൌഡ് ഉപയോഗിക്കുകയാണെങ്കിൽ അതായത് പാസ് തരത്തിലുള്ളവ അവിടെ കമാൻഡ് ലൈൻ ഉണ്ടാകും പക്ഷേ വ്യത്യസ്തങ്ങളായ രീതിയാവും അവിടെ ഉപയോഗിക്കേണ്ടി വരുക പക്ഷേ അടിസ്ഥാനപരമായി തത്വശാസ്ത്രം ഒന്നായിരിക്കും ആ ഒരു ആശയമാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് ഇനി നമുക്ക് അടുത്ത പാഠഭാഗത്ത് ഇതിൻറെ ഡെമോ നോക്കാം